നാം ആക്ടീവ് ലോ പാസ് ഫിൽറ്ററിനെക്കുറിച്ചാണ് ചർച്ചചെയ്തുകൊണ്ടിരുന്നത് ആക്ടീവ് ലോ പാസ് ഫിൽറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നലുകളും അവ തമ്മിലുള്ള ബന്ധവും കാണാം ലോ പാസ് ആക്ടീവ് ഫിൽറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നാം നേരത്തേ കണ്ടു കട്ട് ഓഫ് ഫ്രീക്വൻസി ഫോർമുലയും നമുക്ക് അറിയാം ഇപ്പോൾ നമ്മുടെ വശം ഓരോ റെസിസ്റ്ററും കപ്പാസിറ്ററുമുണ്ട് നിങ്ങൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറോ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറോ ഉപയോഗിക്കുന്നത് എന്നതനുസരിച്ച് സർക്യൂട്ടിൽ മാറ്റം വരുമെന്നും നാം കണ്ടു ഇവിടെ നാം ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറാണ് ഉപയോഗിക്കുന്നത് ലോ പാസ് ഫിൽറ്റർ പരീക്ഷണത്തിനായി നാം ഈ സർക്യൂട്ട് ആണ് ഉപയോഗിക്കുന്നത് ഒരു ഓപ് ആംപ് അധിഷ്ഠിത ലോ പാസ് ഫിൽറ്ററിന്റെ പ്രവർത്തനം പഠിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഓപ് ആംപ് അധിഷ്ഠിത ലോ പാസ് ഫിൽറ്റർ എന്നു പറഞ്ഞാൽ അത് ഒരു ആക്ടീവ് ഫിൽറ്ററാണ് അപ്പോൾ ചിത്രം 14ൽ കാണുന്നതുപോലെ സർക്യൂട്ട് കണക്ട് ചെയ്യുക ബയാസ് നൽകിയിട്ടില്ലെങ്കിലും അതവിടെ ഇല്ല എന്ന് അർഥമില്ല Vcc ഉും -Vcc കാണുക നമുക്ക് ലോ പാസ് ഫിൽറ്ററാണ് കാണേണ്ടത് അതുകൊണ്ടുതന്നെ സർക്യൂട്ട് കണക്ട് ചെയ്താൽ 10 ഹെർട്സിൽ 5 വോൾട്ട് പീക് ടു പീക് സൈൻ വേവ് നൽകും ലോ ഫ്രീക്വൻസി നിർബന്ധമായും കടന്നുപോകണം കട്ട് ഓഫ് ഫ്രീക്വൻസി ഫോർമുല 12πRC ഉപയോഗിച്ച് ഫ്രീക്വൻസി കണക്കാക്കാം ആ ഫ്രീക്വൻസിക്കു മുകളിൽ വന്നാൽ സിഗ്നൽ കട്ട് ആയിത്തുടങ്ങണം അതായത് ആംപ്ലിറ്റിയൂഡ് കുറയും സിഗ്നലിന്റെ 1√2 അളവിലാണ് അതു കുറയുക കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നമുക്കിത് പരീക്ഷണത്തിൽ കാണാം ഔട്ട്പുട്ട് വോൾട്ടേജ് Vout നിരീക്ഷിക്കുകയും കുറിച്ചുവയ്ക്കുകയും ചെയ്യുക അത് പീക് ടു പീക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് അടുത്തതായി നാം ക്രമാനുഗതമായി ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കണം 10 ഹെർട്സിൽനിന്ന് 10 ഹെർട്സ് വീതമാണ് കൂട്ടേണ്ടത് അതായത് f1 10 ഹെർട്സ് ആണെങ്കിൽ f2 20 ഹെർട്സ് f3 30 ഹെർട്സ് എന്നിങ്ങനെ നിങ്ങളുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി fc 159 15 ഹെർട്സ് ആകുന്നതുവരെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ നമുക്കു പറയാം fin fcനേക്കാൾ വലുതാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് ലോ പാസ് ഫിൽറ്ററിന്റെ റോൾ വ്യക്തമാകും ഈ പരീക്ഷണം നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കണം സമാനമായ പരീക്ഷണം നിങ്ങൾക്ക് പിസ്പൈസ് ഉപയോഗിച്ചും ചെയ്യാം എന്നാൽ ബ്രെഡ്ബോർഡ് പവർ സപ്ലൈ ഫങ്ഷൻ ജനറേറ്റർ ഓസിലോസ്കോപ്പ് എന്നിവ ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് ഏറ്റവും അനുയോജ്യം ഇവയെല്ലാം ഉപയോഗിച്ച് ആദ്യം സർക്യൂട്ട് കണക്ട് ചെയ്യണം ബ്രെഡ്ബോർഡിൽ ഇത് എങ്ങനെയിരിക്കുമെന്നു കാണുക ഇതാണ് ആക്ടീവ് ലോ പാസ് ഫിൽറ്റർ ഇതാണ് ഒരു ആക്ടീവ് ലോ പാസ് ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഇവിടെ ആർ സി എന്നിവ കാണാം വിവിധ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ ഇൻപുട്ടിൽ നൽകുകയും അതനുസരിച്ച് ഔട്ട്പുട്ട് സിഗ്നലും അതിന്റെ തരംഗാകൃതിയും മാറുന്നത് കാണാം ഓപ്പറേഷൻ ആംപ്ലിഫയറിലേക്ക് ബയാസ് വോൾട്ടേജ് നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് സിതാറാം ബയാസ് വോൾട്ടേജ് നൽകുന്നതു കാണാം ബ്രെഡ്ബോർഡിൽ ശ്രദ്ധിക്കുക അദ്ദേഹം ബയാസ് വോൾട്ടേജ് VCC യും VCC യും ഓപ്പറേഷണൽ ആംപ്ലിഫയറിലേക്കു നൽകുന്നതു കാണുക നോൺ ഇൻവെർട്ടിംഗ് ആപ്ലിഫയറിന്റെയോ അല്ലെങ്കിൽ ഫിൽറ്ററിന്റെയോ ഇൻപുട്ടിലേക്ക് 5 വോൾട്ട് പീക് ടു പീക് നൽകുകയാണ് അടുത്തപടി അങ്ങനെ നൽകുന്നത് അഞ്ചു വോൾട്ട് തന്നെയാണോ 10 ഹെർട്സ് തന്നെയാണോ എന്നെല്ലാം ഉറപ്പാക്കാൻ നമുക്ക് ഫ്രീക്വൻസി ജനറേറ്റർ പരിശോധിക്കാം ഇനി ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഫങ്ഷൻ ജനറേറ്ററിൽനിന്നുള്ള ഇൻപുട്ട് എന്നിവ ഓസിലോസ്കോപ്പിലേക്കു കണക്ട് ചെയ്യുകയാണ് ഇനി ഇൻപുട്ട് മാറ്റുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് എങ്ങനെ മാറുന്നു എന്നു നിരീക്ഷിക്കാനാണ് ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നലുകൾ നോക്കിയാൽ മനസിലാകും ഇവിടെ 5 വോൾട്ട് പീക് ടു പീക് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഏറെക്കുറെ സമാനമായിരിക്കുന്നു ഇവിടെ സിഗ്നലിലെ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ നോയ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് പ്രോബിന്റെ കുഴപ്പംകൊണ്ടാകാം സർക്യൂട്ടിലെ ലൂസ് കണക്ഷൻ കാരണമാകാം ഇപ്പോൾ അദ്ദേഹം സിഗ്നൽ 20 ഹെർട്സിലേക്ക് ഉയർത്തുകയാണ് നിങ്ങൾക്ക് ഫങ്ഷൻ ജനറേറ്റർ കാണാം ഈസമയം ദയവായി ഓസിലോസ്കോപ്പ് ശ്രദ്ധിക്കുക ഫ്രീക്വൻസി 20 ഹെർട്സ് ആണ് ശരി ഇപ്പോൾ ഇൻപുട്ട് 30 ഹെർട്സിലേക്കു മാറ്റിയിട്ടുണ്ട് പീക് ടു പീക് വോൾട്ടേജ് ഏകദേശം 4 96 ആണ് ഇവിടെ മഞ്ഞനിറത്തിലുള്ളത് നിങ്ങളുടെ ഇൻപുട്ടും നീല ഔട്ട്പുട്ടുമാണ് ഇവ രണ്ടും കണക്കിലെടുത്തുവേണം നിങ്ങൾ മനസിലാക്കാൻ വോൾട്ടേജ് രണ്ടും പീക് ടു പീക് ആണ് ഫ്രീക്വൻസിയും ഏതാണ്ട് 29 ഹെർട്സ് മുതൽ 30 ഹെർട്സ് വരെയാണ് ഇനി അടുത്തതു കാണൂ ഇൻപുട്ട് 40 ഹെർട്സിലേക്ക് ഉയർത്തിയിരിക്കുന്നു ഇൻപുട്ട് വോൾട്ടേജ് പീക് ടു പീക് 4 96 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് 4 96 ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫ്രീക്വൻസികൾ 40 ഹെർട്സ് ആണ് അപ്പോൾ ഇത് 50 ഹെർട്സിനും കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നു നമുക്ക് 60 ഹെർട്സിലേക്കു പോകാം ഇപ്പോൾ നമ്മൾ 80 ഹെർട്സ് വരെ നോക്കി പ്രത്യേകിച്ചു മാറ്റങ്ങൾ ഒന്നുമില്ല ഫ്രീക്വൻസിയെ ഫിൽറ്റർ കടന്നുപോകാൻ അനുവദിക്കുന്നുണ്ട് ഇതെല്ലാം ലോ ഫ്രീക്വൻസികളാണ് നിങ്ങൾക്ക് ഓർമയുണ്ടാകും നമ്മുടെ fc 159 15 ഹെർട്സ് ആണ് എപ്പോഴാണോ ഈ വാല്യൂ എത്തുന്നത് ഫിൽറ്റർ ആംപ്ലിറ്റിയൂഡ് മാറ്റാൻ തുടങ്ങും അഥവാ ആ ഫ്രീക്വൻസിയെ കടന്നുപോകാൻ അനുവദിക്കില്ല നമുക്ക് 150 ഹെർട്സിലേക്ക് ഉയർത്താം 150 ഹെർട്സ് സിഗ്നലിനെയും ആർസി ഫിൽറ്റർ കടന്നുപോകാൻ അനുവദിക്കും വോൾട്ടേജ് നോക്കൂ അത് 4 96 വോൾട്ട്സ് തന്നെയാണ് അതായത് 150 ഹെർട്സ് വരെ ഒരു വിധത്തിലുമുള്ള മാറ്റവും ഇല്ല ഇനി സിഗ്നലിനെ പതിയെ കൂട്ടിനോക്കാം അദ്ദേഹം അതു ചെയ്യുന്നതിനനുസരിച്ച് ആംപ്ലിറ്റിയൂഡ് കുറഞ്ഞുതുടങ്ങും 12πRC ന് അനുസൃതമായി fc യുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കു നോക്കാം fc ന്റെ വാല്യൂ 1 ആണെന്നിരിക്കട്ടെ എന്തുകൊണ്ടാണ് നമുക്ക് ആംപ്ലിറ്റിയൂഡിൽ മാറ്റം കാണാൻ കഴിയാതിരുന്നത് കാരണം ഇതാണ് 10 കിലോ ഓമിനു പകരം അദ്ദേഹം 1 കിലോ ഓം റെസിസ്റ്റർ ആണ് ഉപയോഗിച്ചത് ഇപ്പോൾ നമ്മുടെ വശം 1 കിലോ ഓം ആണുള്ളത് അങ്ങനെയെങ്കിൽ എന്റെ fc 1 59 കിലോ ഹെർട്സ് ആയിരിക്കും 10 കിലോ ഓമിനു പകരം നാം ഉപയോഗിച്ചത് 1 കിലോ ഓം ആണല്ലോ അപ്പോൾ ഇനി നമുക്ക് ഫ്രീക്വൻസി 1 കിലോ ഹെർട്സ് വരെ ഉയർത്താം എന്താണ് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി R1 R2 എന്നിവയെ അടിസ്ഥാനമാക്കി നാം കണക്കാക്കിയ പുതിയ കട്ട് ഓഫ് ഫ്രീക്വൻസി 1 59 കിലോ ഹെർട്സ് ആണ് അതായത് ആക്ടീവ് ലോ പാസ് ഫിൽറ്റർ 1 59 കിലോ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി അനുവദിക്കുമെന്ന് നാം കരുതുന്നു അതിനു മുകളിൽ അനുവദിക്കില്ല പീക് വോൾട്ടേജിൽ വരുന്ന മാറ്റം നിങ്ങൾക്കു കാണാൻ കഴിയും അപ്പോൾ നമുക്ക് വീണ്ടും ഉയർത്താം ഇപ്പോൾ പീക് ടു പീക് വോൾട്ടേജിൽ ഒരു മാറ്റം നിങ്ങൾക്കു കാണാം 16 വോൾട്ടിൽനിന്ന് 4 15 ആയി ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വോൾട്ടേജ് 3 52 വോൾട്ട് ആയി ഫ്രീക്വൻസിയിലും വോൾട്ടേജിലും വരുന്ന മാറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇൻപുട്ട് ഫ്രീക്വൻസി അദ്ദേഹം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഔട്ട്പുട്ട് കുറയുകയാണ് വോൾട്ടേജ് മാത്രമല്ല ഫ്രീക്വൻസിയും കുറയുന്നു ഇപ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി കടന്നുപോകാൻ ഫിൽറ്റർ അനുവദിക്കുന്നില്ല ഒപ്പം വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അതായത് നിങ്ങളുടെ പീക് ടു പീക് വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ 1 കിലോ ഓം അടിസ്ഥാനമാക്കി വീണ്ടും കണക്കാക്കിയ കട്ട് ഓഫ് ഫ്രീക്വൻസി 1 59 കിലോ ഹെർട്സ് ആണ് ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് കാണുന്നു ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഔട്ട്പുട്ട് ഫ്രീക്വൻസി മാറുന്നു എന്നാൽ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു മുകളിൽ വരുമ്പോൾ ആംപ്ലിറ്റിയൂഡ് പീക് ടു പീക് വോൾട്ടേജിൽ മാറ്റം വരുന്നു പ്രത്യേക ഫ്രീക്വൻസിയെ കടന്നുപോകുന്നതു തടയുകയും ചെയ്യുന്നു ഇതാണ് ലോ പാസ് ആക്ടീവ് ഫിൽറ്ററിന്റെ റോൾ നാം ഇവിടെ ആർ സി ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നിവയാണ് ഉപയോഗിച്ചത് ലോ പാസ് ഫിൽറ്ററുകളുടെ കാര്യത്തിൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഉപയോഗിക്കാം രണ്ടും ആക്ടീവ് ഫിൽറ്ററുകളാണ് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഫോർമുല ഒന്നുതന്നെ അതായത് fc12πRC ആണ് റെസിസ്റ്ററിന്റെ വാല്യൂ 10 കിലോ ഓം ആണോ അതോ 1 കിലോ ഓം ആണോ എന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും എന്നത് മറക്കാതിരിക്കുക അങ്ങനെയാണ് പരീക്ഷണവേളയിൽ നമുക്കും തെറ്റു പറ്റിയതായി കണ്ടത് റെസിസ്റ്റർ വാല്യൂ തെറ്റായി എടുത്തതുകൊണ്ടാണ് ഫ്രീക്വൻസിയിൽ അപ്രതീക്ഷിത മാറ്റം വന്നത് എടുത്ത വാല്യൂവിനെ അടിസ്ഥാനമാക്കി കണക്കാക്കിയപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി തിയററ്റിക്കൽ ആയും എക്സ്പെരിമെന്റൽ ആയും ശരിയാണെന്ന് വ്യക്തമായി ഡാറ്റ ചേർച്ചയുള്ളതായിരുന്നു നമ്മുടെ ഈ മൊഡ്യൂൾ സാധാരണയിൽ കവിഞ്ഞ ദൈർഘ്യം ഉള്ളതായി അരമണിക്കൂർ മുതൽ 40 മിനിറ്റ് വരെ എടുക്കാറുള്ളത് ഒരു മണിക്കൂറിൽ ഏറെ സമയം എടുത്തു ഒരു മണിക്കൂർ ഇരുപതു മിനിറ്റ് ഫിൽറ്ററുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കരുത് എന്ന നിർബന്ധം ഉള്ളതിനാലാണ് അത് ആവശ്യത്തിന് ഇടവേളകൾ എടുത്ത് കൃത്യമായി മനസിലാക്കുക നിങ്ങൾ എവിടെവച്ചും നിർത്തി ഇടവേളയെടുത്ത് വീണ്ടും തുടങ്ങാം എന്നതാണ് എൻപിടിഇഎൽ വീഡിയോകളുടെ ഒരു ഗുണം ഇന്നു നമ്മൾ ലോ പാസ് മാത്രമാണ് കണ്ടത് ഇതു മനസിലാക്കാൻ ഇത്രയും സമയം എടുത്തെങ്കിൽ ഹൈ പാസ് ബാൻഡ് പാസ് എന്നിവ പഠിക്കാൻ എത്ര സമയം എടുക്കുമെന്ന് ഓർക്കൂ അപ്പോൾ ഇതു വ്യക്തമായി പഠിക്കുക അത്ര പ്രധാനമായ പരീക്ഷണങ്ങൾ ആണ് നമ്മൾ കണ്ടത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അതു സ്വയം തീർക്കാൻ ശ്രമിക്കുക അതിനു കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും എന്നോടു ചോദിക്കാം നിങ്ങളെ സഹായിക്കാനാണ് ഞാനുള്ളത് അടുത്ത മൊഡ്യൂളിൽ മറ്റൊരു കൂട്ടം എക്സ്പെരിമെന്റുമായി വീണ്ടും കാണാം അപ്പോൾ ഇതോടെ ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസിൽ കാണാം നമസ്കാരം